സിനുസോയിഡിനെയും ഫേസറുകളെയും കുറിച്ചുള്ള രണ്ടാമത്തെ ലക്ചറിലേക്ക് സ്വാഗതം ഈ പ്രത്യേക വിഷയത്തിലേക്ക് പോകുന്നതിനു മുൻപായി ഒരു നല്ല ചരിത്ര സംഭവം ഉദാഹരണമായി തരാം അടിസ്ഥാനപരമായി ഇത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നടന്ന ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ ഈ യുദ്ധം ആയുധങ്ങളുമായി എവിടെയാണ് നടന്നത് എന്നല്ല അത് വാക്കുകളുടെ ഒരു യുദ്ധമായിരുന്നു ആ വാക്കുകൾ എന്തായിരുന്നു എസി ഡിസി എന്നിവയായിരുന്നു ആ വാക്കുകൾ അത് 1890 കാലഘട്ടത്തിലാണ് അതിനാൽ അക്കാലത്ത് ധാരാളം സംവാദങ്ങൾ നടന്നിരുന്നു ഡിസി മികച്ചതാണോ എസി മികച്ചതാണോ എന്നത് ഒടുവിൽ എസി വിജയിച്ചു കൂടുതൽ ദൂരത്തേക്ക് വൈദ്യുതി കൈമാറാൻ എസിക്ക് കഴിഞ്ഞതിനാൽ നഷ്ടം കുറവായിരുന്നു കൂടാതെ ഉയർന്ന വോൾട്ടേജിനായി ജനറേറ്റ് ചെയ്യുന്നത് എളുപ്പമായിരുന്നു അതുകൊണ്ടു തന്നെ ഒടുവിൽ 1895 ൽ ആളുകൾ എസിയെ തിരഞ്ഞെടുത്ത വോൾട്ടേജ് ഉറവിടമായി സ്വീകരിച്ചു സർക്യൂട്ട് വിശകലനത്തിൽ എസി എന്തുകൊണ്ടാണ് പ്രധാനമാകുന്നത് എന്നും എന്തിനാണ് എസി പഠിക്കുന്നതെന്നും മനസിലാക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനാൽ ആദ്യം നമുക്ക് സിനുസോയിഡ് മനസ്സിലാക്കാം ഈ പ്രത്യേക പ്രഭാഷണത്തിൽ സമയത്തിന് അനുസൃതമായി വ്യത്യാസപ്പെടുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറൻറ് ഉറവിടങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുന്നതിന് ആവശ്യമായ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ സിനുസോയ്ഡൽ ടൈം വേരിയിംഗ് എന്നതിനർത്ഥം ഒരു സിനുസോയിഡ് നൽകുന്ന ഉത്തേജനം എന്നാണ് ഇപ്പോൾ ചോദ്യം എന്താണെന്നാൽ ഒരു സിനുസോയിഡ് എന്താണ് സൈൻ അല്ലെങ്കിൽ കോസൈൻ ഫംഗ്ഷനുകനുകളുടെ രൂപം ഉള്ള ഒരു സിഗ്നലാണ് സിനുസോയ്ഡ് ഇപ്പോൾ സിനുസോയ്ഡൽ കറന്റിനെ സാധാരണയായി ആൾട്ടർനേറ്റിംഗ് എന്ന് വിളിക്കുന്നു പ്രത്യാവർത്തിധാര പറയുമ്പോഴെല്ലാം നിങ്ങൾ സംസാരിക്കുന്നത് സൈനിന്റെയോ കോസൈനിന്റെയോ രൂപത്തിലുള്ള സിനുസോയ്ഡൽ കറന്റിനെക്കുറിച്ചാണ് എന്നാണ് ഇതിനർത്ഥം അത്തരം കറൻറുകൾ ഓരോ സമയ ഇടവേളകളിലും വിപരീതദിശയിൽ ആയിരിക്കും അതിനർത്ഥം അത് ഇടവിട്ട് പോസിറ്റീവും നെഗറ്റീവും ആയി കൊണ്ടിരിക്കും അതിനാൽ ഈ സിനുസോയ്ഡലുകൾ നയിക്കുന്ന സർക്യൂട്ട് കറൻറ് അല്ലെങ്കിൽ വോൾട്ടേജ് ഉറവിടത്തെ എസി സർക്യൂട്ടുകൾ എന്ന് വിളിക്കുന്നു ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് സിനുസോയിഡുകളിൽ താൽപ്പര്യമുള്ളത് ഒന്നാമതായി സ്വഭാവം സിനുസോയ്ഡൽ ആണ് അതായത് ഒന്നിടവിട്ടു പോസിറ്റീവും നെഗറ്റീവും ആകുന്നു സിനുസോയ്ഡൽ സിഗ്നൽ നിർമ്മിക്കാനും അയക്കാനും വളരെ എളുപ്പമാണ് മാത്രമല്ല ഇപ്പോൾ ലോകമെമ്പാടും റെസിഡൻഷ്യൽ വ്യാവസായിക അല്ലെങ്കിൽ വാണിജ്യപരമായ വിവിധ ലോഡുകളിലേക്ക് വിതരണത്തിനായി ഉത്പാദിപ്പിക്കപ്പെടുന്ന വോൾട്ടേജ് ആണ് എസി എസി വളരെ പ്രാധാന്യമർഹിക്കുന്നതിനാൽ ലോകമെമ്പാടും ഇത് വളരെയധികം ഉപയോഗപ്പെടുത്തുന്നു എസി കറൻറ് അല്ലെങ്കിൽ വോൾട്ടേജ് ഉറവിടത്തിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്ന എസി സർക്യൂട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ മറ്റൊരു പ്രധാന കാര്യം എന്താണെന്നാൽ ഫുറിയേ വിശകലനം ഉപയോഗിച്ച് നമുക്ക് ഏതൊരു പ്രായോഗിക പീരിയോഡിക് സിഗ്നലുകളെയും ഒന്നിൽ കൂടുതൽ സിനുസോയിഡുകളുടെ ആകെത്തുകയായി രൂപാന്തരപ്പെടുത്താം എന്നതാണ് ഈ സൈനസോയിഡുകൾ ഗണിതശാസ്ത്രപരമായി കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണം ഡെറിവേറ്റീവുകൾ അതായത് സൈനിൻറെ ഡെറിവേറ്റീവ് കോസ് ആണ് കോസിന്റെ ഡെറിവേറ്റീവ് സൈൻ ആണ് അതുകൊണ്ട് ഡെറിവേറ്റീവും ഇന്റഗ്രലും സിനുസോയിഡുകൾ തന്നെ ആയിരിക്കും എന്നാണ് ഇതിനർത്ഥം അതിനാൽ നമ്മുടെ സർക്യൂട്ട് വിശകലനത്തിന് സിനുസോയിഡുകൾ വളരെ പ്രധാനമാണ് ഇനി നമുക്ക് ഒരു സിനുസോയിഡ് പരിഗണിച്ച് സിനുസോയിഡുകളുടെ വിവിധ ഘടകങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കാം അതിനാൽ നമ്മൾ എങ്ങനെയാണ് സിനുസോയിഡിനെ പ്രതിനിധീകരിക്കുന്നത് നമ്മൾ 𝑣𝑡 𝑉𝑚 sin 𝜔𝑡 എന്ന രൂപത്തിലാണ് സിനുസോയിഡിനെ പ്രതിനിധീകരിക്കുന്നത് ഇപ്പോൾ t എന്നത് സമയ വ്യതിയാനമാണ് Vm എന്നത് സിഗ്നലിന്റെ ഉന്നതി ആണ് തുടർന്ന് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ പോസിറ്റീവ് മുതൽ നെഗറ്റീവ് വരെ ഈ പ്രത്യേക സിഗ്നൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മോട് പറയുന്ന 𝜔𝑡 എന്ന മറ്റൊരു ഘടകമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ലൈഡിൽ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ കാണാം ആദ്യ ചിത്രത്തിൽ സിഗ്നലിന്റെ വ്യതിയാനം 𝜔𝑡 യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെ എന്താണ് 𝜔 കോണീയ ആവൃത്തി എന്ന് വിളിക്കുന്നു ഇത് റേഡിയൻസ് പെർ സെക്കൻഡിലാണ് അളക്കുന്നത് ഇനിയെന്താണ് നമ്മൾ ഈ ചിത്രത്തിൽ ചെയ്യുന്നത് കോണിനെ സംബന്ധിച്ച് വോൾട്ടേജ് സിഗ്നലിന്റെ ഉന്നതി കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു കാരണം 𝜔𝑡 എന്നത് കോണല്ലാതെ മറ്റൊന്നുമല്ല രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് വോൾട്ടേജിൻറെ സമയവുമായി ബന്ധപ്പെട്ട ഉന്നതി കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങൾ രണ്ടു ചിത്രങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ അവ പോസിറ്റീവും നെഗറ്റീവും ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സിഗ്നൽ പോസിറ്റീവ് ആണെന്ന് നിങ്ങൾ കാണുന്നു ഇവിടെ അത് നെഗറ്റീവ് ആണ് വീണ്ടും 2𝜋 കോണിന് ശേഷം ഇത് ആവർത്തിക്കുന്നു അതുപോലെ സമയ വ്യതിയാനം കണ്ടാൽ സിഗ്നൽ വീണ്ടും ടി സമയത്തിന് ശേഷം ആവർത്തിക്കുന്നതായി നിങ്ങൾക്ക് കാണാം അപ്പോൾ ടി എന്താണ് ടി യെ സിനുസോയിഡിന്റെ സമയപരിധി എന്നും അതിനുശേഷവും വിളിക്കുന്നു ഓരോ സമയ പരിധിക്ക് ശേഷവും സിനുസോയ്ഡ് സ്വയം ആവർത്തിക്കുന്നു അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം രണ്ട് ചിത്രങ്ങളും താരതമ്യം ചെയ്താൽ 𝜔𝑇 2𝜋 എന്ന് നമുക്ക് കാണാൻ കഴിയും അതിനാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും നമുക്ക് 𝜔𝑇 2𝜋 എന്ന് പറയാൻ കഴിയും മാത്രമല്ല കാലയളവ് 𝑇 2𝜋𝜔 ആണെന്ന് കാണിക്കാൻ കഴിയും ഓരോ ടി സമയ കാലയളവിനുശേഷവും ഇത് ആവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും അത് നമുക്ക്കണ്ടെത്താൻ ശ്രമിക്കാം നമ്മുടെ യഥാർത്ഥ സിഗ്നൽ 𝑣𝑡 ആണെങ്കിൽ 𝑣 𝑡 𝑇 എന്നത് 𝑣𝑡 𝑇 𝑉𝑚 sin 𝜔𝑡 𝑇 𝑉𝑚 𝑠𝑖𝑛 𝜔𝑡 2𝜋𝜔 ഇപ്പോൾ ഔട്ട്പുട്ട് 𝑉𝑚 sin 𝜔𝑡 2𝜋 ആണ് കാരണം നിങ്ങൾ 𝜔 അകത്തേക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പദം 𝜔𝑡 ആകും രണ്ടാമത്തെ പദം 2𝜋 ആയി മാറും ഇപ്പോൾ sin 𝜔𝑡 2𝜋 യുടെ മൂല്യം എന്താണ് അത് വീണ്ടും 𝜔𝑡 ആയി മാറുന്നു ഒടുവിൽ നമുക്ക് എന്ത് ലഭിക്കും നമുക്ക് 𝑉𝑚 sin 𝜔𝑡 𝑣𝑡 എന്ന് ലഭിക്കുന്നു ഈ രീതിയിൽ നമുക്ക് ഫംഗ്ഷനിൽ ടി ചേർത്താൽ അത് ഒടുവിൽ യഥാർത്ഥ സിഗ്നൽ ആയിത്തീരുമെന്ന് പറയാൻ കഴിയും ടി എന്ന ഓരോ കാലഘട്ടത്തിനു ശേഷവും സിഗ്നൽ ആവർത്തിക്കുന്നു എന്നാണ് ഇതിനർത്ഥം അതിനാൽ 𝑣 യുടെ മൂല്യം t യിലേതു പോലെ 𝑡 𝑇 യിലും തുല്യമായിരിക്കും നമുക്ക് പറയാനാകും അതിനാലാണ് ഇത് പീരിയോഡിക് ആയത് അതിനാൽ 𝑓𝑡 𝑓𝑡 𝑛𝑇 എന്ന ഏതൊരു ഫംഗ്ഷനും ഉണ്ടെങ്കിൽ അതായത് സമയപരിധി പൂർണ്ണസംഖ്യ യുമായി ഗുണിച്ചാൽ സിഗ്നൽ പിരിയോടിക് ആയിരിക്കും എന്ന് പൊതുവേ നമുക്ക് പറയാം ടി എന്നത് സമയപരിധിയല്ലാതെ മറ്റൊന്നുമല്ലെന്നും ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് അത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ കഴിയും ഇനി നമുക്ക് മറ്റൊരു അളവ് കണ്ടെത്താൻ ശ്രമിക്കാം ചാക്രിക ആവൃത്തി ആണ് അതിനെ വിളിക്കുന്നത് പൊതുവായി പറഞ്ഞാൽ നമ്മൾ ചാക്രിക ആവൃത്തി എന്ന് പറയുന്നില്ല നമ്മൾ ലളിതമായി ആവൃത്തി എന്നു പറയുന്നു അതിനാൽ ആവൃത്തി f എന്താണ്f എന്നത് 1𝑇 എന്ന സമയപരിധിയുടെ മൂല്യമല്ലാതെ മറ്റൊന്നുമല്ല അതായത് ഇപ്പോൾ നിങ്ങൾ ഈ മൂല്യം മുൻപു കണ്ടുപിടിച്ച 𝑇 2𝜋𝜔 എന്ന സമവാക്യത്തിൽ ഇടുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും നമുക്ക് 𝜔 2𝜋𝑓 ലഭിക്കും അതിനാൽ ഇത് അടിസ്ഥാനപരമായി റേഡിയൻസ് പെർ സെക്കൻഡിൽ അളക്കുന്ന കോണീയ ആവൃത്തിയും ഹെർട്സ് ൽ അളക്കുന്ന ചാക്രിക ആവൃത്തിയും തമ്മിലുള്ള ബന്ധമാണ് നിങ്ങൾ സാധാരണയായി കാണുന്ന മറ്റൊരു പൊതുവായ പദം ∅ ആണ് ആണ് അതിൽനിന്ന് 𝑣𝑡 𝑉𝑚 𝑠𝑖𝑛𝜔𝑡 ∅ ലഭിക്കുന്നു അതിനാൽ ഞങ്ങൾ മറ്റൊരു പദം ∅ ചേർക്കുന്നു അത് ആ തരംഗരൂപ ത്തിൻറെ ഫേസ് അല്ലാതെ മറ്റൊന്നുമല്ല എന്താണ് ഇതിനർത്ഥം നിങ്ങൾ ചിത്രം കാണുകയും വോൾട്ടേജ് 𝑣2𝑡 കാണുകയും ചെയ്താൽ അതിന്റെ തരംഗരൂപം 0 ൽ നിന്ന് ആരംഭിക്കുന്നില്ല അത് 0 ന് മുമ്പുള്ള എവിടെ നിന്നോ ആരംഭിക്കുന്നു അതിനാൽ നിങ്ങൾ ടി യുടെ മൂല്യം 0 ന് തുല്യമാക്കിയാൽ നിങ്ങൾക്ക് 𝑉𝑚 sin ∅ എന്ന മൂല്യം ലഭിക്കും 0 ന് തുല്യമായ സമയത്ത് ഈ സിഗ്നലിന് ചില മൂല്യങ്ങളുണ്ട് എന്നാണ് അതിനർത്ഥം അതിനാലാണ് ഇതിന് 0 ന് തുല്യമായ സമയത്ത് പോസിറ്റീവ് മൂല്യം ഉള്ളത് അതിനാൽ ഇത് 0 ത്തിന് മുമ്പായി ആരംഭിക്കുന്നു ഇപ്പോൾ നിങ്ങൾ 𝑣1𝑡 എന്ന മറ്റൊരു സിഗ്നലുമായി താരതമ്യം ചെയ്താൽ 𝑣1𝑡 എന്നത് മുമ്പ് പരിഗണിച്ച നമ്മുടെ യഥാർത്ഥ സിഗ്നൽ അല്ലാതെ മറ്റൊന്നുമല്ല അതായത് 𝑣1 𝑡 𝑉𝑚 sin𝜔𝑡എന്നതിന് തുല്യമാണ് നമ്മൾ രണ്ടു മൂല്യങ്ങളും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 𝑣1 𝑡 ആയി മാറും ഇത് ഒറിജിനിൽ നിന്ന് ആരംഭിക്കുന്ന Vm സൈൻ ഒമേഗ ടി 𝑉𝑚 sin𝜔𝑡 അല്ലാതെ മറ്റൊന്നുമല്ല ഒമേഗ ടി ഒറിജിനിൽ നിന്ന് ആരംഭിക്കുമ്പോൾ 𝑣2𝑡 𝑉𝑚 sin𝜔𝑡 ∅ ഒറിജിനുമുമ്പ് ആരംഭിക്കുന്നു അതിനാൽ കോൺ ∅ വോൾട്ടേജ് 𝑣2𝑡 ക്ക് ചില പ്രധാന ഘടകങ്ങൾ നൽകുന്നുവെന്ന് നമുക്ക് പറയാം അതിനെ നമ്മുടെ ഫേസ് ആംഗിൾ എന്ന് വിളിക്കുന്നു അതിനാൽ 𝑣2 𝑡 ആണ് 𝑣1 𝑡 യെ കോൺ ∅ ലൂടെ നയിക്കുന്നത് എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ 𝑣1𝑡 𝑣2 𝑡 യെ ∅ അളവിൽ ലാഗ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം ഇപ്പോൾ കോൺ ∅ പൂജ്യത്തിന് തുല്യമല്ലെങ്കിൽ അതിനർത്ഥം വോൾട്ടേജ് v1 v2 എന്നിവ ഔട്ട് ഓഫ് ഫേസ് ആണെന്നാണ് നമ്മൾ ∅ പൂജ്യത്തിന് തുല്യം ആകുകയാണെങ്കിൽ വോൾട്ടേജ് വി 1 𝑣1 വോൾട്ടേജ് വി 2 𝑣2 എന്നിവയുടെ തരംഗരൂപങ്ങൾ ഒത്തുചേർന്ന് അവ ഒരേ സമയം അവരുടെ മാക്സിമയിലും മിനിമയിലും maxima minima എത്തും അതിനാൽ ഈ ഫേസ് വ്യത്യാസം രണ്ട് തരംഗരൂപങ്ങൾ പരസ്പരം ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കുന്നത് എങ്ങനെ എന്ന് നിർവചിക്കും ഇപ്പോൾ സിനുസോയിഡിനെ സൈൻ രൂപത്തിലോ കോസൈൻ രൂപത്തിലോ പ്രതിനിധീകരിക്കാം അത് ത്രികോണമിതി ഐഡന്റിറ്റികൾ ഉപയോഗിച്ച് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്താം അതിനാൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് സിനുസോയിഡുകളിലും ഫേസറുകളിലും പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില ത്രികോണമിതി ഐഡന്റിറ്റികൾ കാണാം അതിനാൽ ആദ്യം നമുക്ക് നോക്കാം ആദ്യത്തേത് എന്താണ് ആദ്യത്തേത് സൈൻ എ പ്ലസ് ബി ആണ് അതിനാൽ നാം sin𝐴 𝐵 യെ പരിഗണിക്കുന്നു നമുക്ക് sin𝐴 𝐵 sin 𝐴 𝑐𝑜𝑠𝐵 𝑐𝑜𝑠𝐴 𝑠𝑖𝑛 𝐵 ആണെന്നറിയാം ഇപ്പോൾ sin𝐴 𝐵 ക്ക് പകരം നിങ്ങളോട് sin𝐴 − 𝐵 കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു നിങ്ങൾ പ്ലസ് മൈനസ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കണം ഇപ്പോൾ cos 𝐴 𝐵 ക്കായി നിങ്ങൾക്ക് cos 𝐴 𝑐𝑜𝑠𝐵 𝑠𝑖𝑛𝐴 𝑠𝑖𝑛 𝐵 ഉണ്ട് അതിനാൽ നേരെ വിപരീതമായി cos𝐴 − 𝐵 യുടെ മൂല്യം കണ്ടെത്താൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് cos 𝐴 𝑐𝑜𝑠𝐵 𝑠𝑖𝑛𝐴 𝑠𝑖𝑛 𝐵 ഉണ്ട് ഇപ്പോൾ ഇവ ഉപയോഗിച്ച് നിങ്ങൾക്ക് സിനുസോയിഡിലും ഫേസർ കണക്കുകൂട്ടലുകളിലും പ്രധാനമായ കുറച്ച് മൂല്യങ്ങൾ കണ്ടെത്താൻ കഴിയും എന്താണ് ഈ മൂല്യങ്ങൾ അതിലൊന്നാണ് സൈൻ ഒമേഗ ടി പ്ലസ് 180 ഡിഗ്രി എന്താണ് sin𝜔𝑡 180 യുടെ മൂല്യം അത് −sin𝜔𝑡 ക്ക് തുല്യമാണ് അതുപോലെ നിങ്ങളോട് sin𝜔𝑡 − 180 യുടെ മൂല്യം കണ്ടെത്താൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽഎന്നാലും ഔട്ട്പുട്ട് അതേപടി തുടരും അതാണ് − sin 𝜔𝑡 ഇപ്പോൾ cos 𝜔𝑡 180 എന്താണ് അത് വീണ്ടും − cos 𝜔𝑡 യുടെ മൈനസ് ആണ് അപ്പോൾ നിങ്ങളോട് cos𝜔𝑡 − 180 യുടെ മൂല്യം കണ്ടെത്താൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഔട്ട്പുട്ട് വീണ്ടും സമാനമായിരിക്കും അതായത്− cos 𝜔𝑡 അതുപോലെ sin𝜔𝑡 90 യുടെ മൂല്യം കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് അത് cos 𝜔𝑡 ആയിരിക്കും ഇപ്പോൾ പ്ലസിനുപകരം sin𝜔𝑡 − 90 യുടെ മൂല്യം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് − cos 𝜔𝑡 യുടെ മൈനസ് ആയി മാറും ശരിയല്ലേ അതിനാൽ അത് മൈനസ് ആണെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് −cos 𝜔𝑡 ആയിരിക്കും ഇപ്പോൾ cos 𝜔𝑡 90 ക്ക് ഇത് − sin 𝜔𝑡 ആയി മാറും അതുപോലെ cos𝜔𝑡 − 90 യുടെ മൂല്യം sin 𝜔𝑡 ആകും അതിനാൽ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും ഈ പ്രത്യേക യഥാർത്ഥ ഫോർമുലയിൽ മൂല്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ മൂല്യങ്ങൾ പരിശോധിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും നിങ്ങൾക്ക് 𝜔𝑡 ഉപയോഗിക്കാം നിങ്ങൾക്ക് 𝜔𝑡 ഉപയോഗിച്ച് A യും 180 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി ഉപയോഗിച്ച് B യും മാറ്റാം എന്തായാലും ഈ പദപ്രയോഗങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും ഇവ വളരെ പ്രധാനമാണ് കാരണം നിങ്ങൾ സിനുസോയിഡുകളുടെ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതായത് നിങ്ങൾ സൈനസോയിഡുകൾ സൈനിൽ നിന്ന് കോസൈനിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ അടുത്ത കുറച്ച് സ്ലൈഡുകളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഫേസറിന്റെ മൂല്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവ തുടർന്നും ഉപയോഗിക്കാം സിനുസോയിഡ് എന്ന ആശയം നിങ്ങൾക്ക് നന്നായി മനസിലാക്കാൻ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാം 𝑣𝑡 12 cos50𝑡 10° എന്ന ഒരു സിനുസോയിഡിന്റെ ഉദാഹരണം നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് 𝑉𝑚 cos 𝜔𝑡 ∅ യുമായി എളുപ്പത്തിൽ താരതമ്യം ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾ രണ്ടു എക്സ്പ്രഷനുകളും താരതമ്യം ചെയ്യുമ്പോൾ Vm എന്നത് 12 വോൾട്ടുകളല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും കാരണം V വോൾട്ടുകളിലാണ് അളക്കുന്നത് ഇപ്പോൾ ഫേസ് ആംഗിൾ എന്താണ് ഫേസ് ആംഗിൾ 10 ഡിഗ്രി പോസിറ്റീവ് ആയിരിക്കും ഇപ്പോൾ 𝜔 എന്ന കോണീയ ആവൃത്തി നിങ്ങൾക്ക് സെക്കൻഡിൽ 50 റേഡിയൻസ് ലഭിക്കും അതിനാൽ സമയ കാലയളവ് 2π 𝜔 ആയിരിക്കും അത് 0 1257 സെക്കൻഡായി മാറുകയും ആവൃത്തി സമയ കാലയളവിനു വിപരീതമായി നിങ്ങൾക്ക് 7 958 ഹെർട്സ് ലഭിക്കും 𝑣1 −10 cos50𝑡 50 എന്നതും 𝑣2 12 sin50𝑡 − 10 എന്നതുമായ രണ്ട് വോൾട്ടേജ് സിഗ്നലുകൾക്കിടയിലുള്ള ഫേസ് ആംഗിൾ കണക്കാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇവ താരതമ്യം ചെയ്യാൻ രണ്ടുo ഒന്നുകിൽ സൈനോ കൊസൈനോ ആയിരിക്കണം അതിനാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ സൈനിനെ കോസൈൻ ആക്കി ഫേസ് ആംഗിൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇതിനായി മുമ്പത്തെ സ്ലൈഡിൽ കണ്ട ത്രികോണമിതി പ്രവർത്തനങ്ങളുടെ സഹായത്തോടെ നമ്മൾ ചില മൈനസ് സൈൻ പോസിറ്റീവ് ചിഹ്നത്തിലേക്ക് പരിവർത്തനം ചെയ്യണം അതിനാൽ𝑣1 −10 cos50𝑡 50 യെ 10 cos 50𝑡 50 180 ആയി മാറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാം കാരണം cos 𝜔𝑡 180 യും cos 𝜔𝑡 180യും − cos 𝜔𝑡 തന്നെ ആയിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ രണ്ട് സാധ്യമായ ഓപ്ഷനുകൾ ഉണ്ട് ഒന്ന് 𝑣1 എന്നത് 10 cos 50𝑡 50 180 അതുപോലെ 10 cos 50𝑡 50 180 യും ആണ് കാരണം ഇത് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആണെങ്കിലും നിങ്ങളുടെ ഔട്ട്പുട്ട് ആ കോണിന്റെ കോസിൻറെ മൈനസ് ആയിരിക്കും അതിനാൽ നമ്മൾ ഈ രണ്ട് സാഹചര്യങ്ങളും കണക്കിലെടുത്ത് രണ്ടിലും നമുക്ക് സമാന ഔട്ട്പുട്ട് ലഭിക്കും എന്ന് ന്യായീകരിക്കുന്നു ഇപ്പോൾ 𝑣2 എന്നത് 12 sin50𝑡 − 10 അതായത് 12 cos50𝑡 − 10 − 90 ഇവിടെ നമ്മൾ sin 𝜔𝑡 യുടെ മൂല്യം കോസിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നു അപ്പോൾ sin 𝜔𝑡 എന്നത് cos𝜔𝑡 − 90 അല്ലാതെ മറ്റൊന്നുമല്ല എന്നു നമുക്ക് പറയാൻ കഴിയും ശരിയല്ലേ ഇതാണ് മുൻപത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ നിങ്ങൾ ഈ മൂല്യം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രത്യേക പദപ്രയോഗo 12 cos50𝑡 − 10 − 90 ആയി മാറും അതിനാൽ ഈ രീതിയിൽ നിങ്ങൾ രണ്ടാമത്തെ വോൾട്ടേജ് സിഗ്നലിനെ സൈനിൽ നിന്ന് കോസൈനിലേക്ക് പരിവർത്തനം ചെയ്യുന്നു അതിനാൽ 𝑣1 നമുക്ക് ലഭിച്ചത് 10 cos50𝑡 − 130 ആയിരുന്നു കാരണം മൂല്യം 50 180 ആയിരുന്നു അതിനാൽ ഒടുവിൽ ഇത് 130 ആകുo അതിനാൽ ഈ രണ്ട് സിഗ്നലുകളാണ് നമ്മൾ കണ്ടു പിടിച്ചത് ഇപ്പോൾ 𝑣2 നിങ്ങൾക്ക് 12 cos50𝑡 − 100 ആണെന്ന് എഴുതാം കാരണം അത് 10 90 ആണ് അതിനാൽ അത് 100 ആകും നിങ്ങൾക്ക് ഈ മൂല്യം 130 30 ആയി മാറ്റാൻ കഴിയും അതുവഴി നിങ്ങൾക്ക് രണ്ടും താരതമ്യം ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് 50t 10 എന്നതിനെ 50t 100 360 എന്നും എഴുതാം 360 ഡിഗ്രി എന്നാൽ 2𝜋 അല്ലാതെ മറ്റൊന്നുമല്ല ഒരു പീരിയോഡിക് സിഗ്നൽ ആയതിനാൽ നിങ്ങൾക്ക് ഒടുവിൽ അതേ സിഗ്നൽ ലഭിക്കും അതിനാൽ ആ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നമ്മൾ 360 ഡിഗ്രി ചേർക്കുന്നു ഒടുവിൽ നമുക്ക് അത് എടുക്കുന്നു 12 cos50𝑡 260 ലഭിക്കുന്നു ഇപ്പോൾ ഇവ രണ്ടും താരതമ്യം ചെയ്താൽ 𝑣2 𝑣1 നെ 30 കൊണ്ട് നയിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും അതിനാൽ 𝑣2 ന്റെ കോൺ മൈനസ് 𝑣1 ന്റെ കോൺ 30 ഡിഗ്രിക്ക് തുല്യമായിരിക്കും അതുപോലെ ഈ രണ്ട് സാഹചര്യങ്ങളും നിങ്ങൾ വീണ്ടും താരതമ്യം ചെയ്യുകയാണെങ്കിൽ 𝑣2 മൈനസ് 𝑣1 ന്റെ കോൺ 30 ഡിഗ്രിക്ക് തുല്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും അതിനാൽ 𝑣1 പ്ലസ് 180 ഡിഗ്രിയോ മൈനസ് 180 ഡിഗ്രിയോ ആണെങ്കിലും നമുക്ക് സമാന ഉത്തരങ്ങൾ കണ്ടെത്താം കോസ് സൈനാക്കി വോൾട്ടേജ് 𝑣2 മായി താരതമ്യപ്പെടുത്തുന്ന സമാനമായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ഫേസർ എന്ന മറ്റൊരു ആശയത്തിലേക്ക് വരാം കാരണം സിനുസോയിഡുകൾ എളുപ്പത്തിൽ ഫേസറിന്റെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കുന്നു കാരണം അവ സൈൻ കോസൈൻ എന്നീ ഫംഗ്ഷനുകളെക്കാൾ പ്രവർത്തിക്കാൻ കൂടുതൽ സൌകര്യപ്രദമാണ് ഫേസറിനെ നമ്മൾ എങ്ങനെ നിർവചിക്കും ഫേസർ എന്നത് സിനുസോയിഡിന്റെ ഉന്നതിയും ഘട്ടവും amplitude phase പ്രതിനിധീകരിക്കുന്ന ഒരു സങ്കീർണ്ണ സംഖ്യയാണ് അതിനാൽസങ്കീർണ്ണ സംഖ്യ നിർവചിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും നിങ്ങൾ സങ്കീർണ്ണ സംഖ്യ 𝑧 𝑥 𝑗𝑦 എന്നെഴുതും j എന്നാൽ √−1 എന്ന മൂല്യമുള്ള ഓപ്പറേറ്ററാണ് ഒരു പ്രത്യേക മൂല്യത്തിന് ഒപ്പം അത് ചേർക്കുമ്പോൾ ഈ പ്രത്യേക മൂല്യം സാങ്കൽപ്പികമാകും എന്ന് പറയാം അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായി z എന്ന സങ്കീർണ്ണ സംഖ്യയുടെ റക്റ്റാങ്കുലർ ഫോം z സമാന പോളാർ കോർഡിനേറ്റുകളിലോ എക്സ്പോണൻഷ്യൽ രൂപത്തിലോ പ്രകടിപ്പിക്കാം അതായത് z ലളിതമായി 𝑟∠∅ എന്ന് പ്രകടിപ്പിക്കാൻ കഴിയും അത് 𝑟𝑒𝑗∅ അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ എന്താണ് 𝑒𝑗∅ അതിനെ ഓയിലർ ഫോർമുലേഷൻ എന്ന് വിളിക്കുന്നു അതായത് 𝑒𝑗∅ cos ∅ 𝑗 sin ∅ ഫേസർ നിർവചനത്തിന് ഈ ഓയിലർ ഫോർമുല വളരെ പ്രധാനമാണ് അതിനാൽ ഇത് നമുക്ക് നമ്മുടെ വിവിധ ഫേസർ കണക്കുകൂട്ടലുകളിൽ പതിവായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാം

അതിനാൽ നിങ്ങൾ അത് വീണ്ടും വിഘടിപ്പിക്കുകയാണെങ്കിൽ അത് 𝑥 𝑗𝑦 ആയി മാറും ഇവിടെ x എന്നാൽ 𝑟 cos ∅ അല്ലാതെ മറ്റൊന്നുമല്ല y എന്നാൽ 𝑟 sin ∅ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഈ രൂപത്തിൽ r എന്നാൽ സങ്കീർണ്ണ സംഖ്യയായ 𝑧 ൻറെ മാഗ്നിറ്റ്യൂഡ് ആയും ∅ എന്നാൽ 𝑧 ൻറെ ഫേസുമായി കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ 𝑒 𝑗∅ cos ∅ 𝑗 sin ∅ എന്നതിൽ cos ∅ എന്നതിനെ 𝑒 𝑗∅ യുടെ യഥാർത്ഥ പദങ്ങങ്ങളായും sin ∅ എന്നതിനെ 𝑒 𝑗∅ യുടെ സാങ്കൽപ്പിക പദമായും പ്രതിനിധീകരിക്കാം അതിനാൽ ഓരോ പ്രാതിനിധ്യവും ഉപയോഗ സൌകര്യമനുസരിച്ച് സാധാരണയായി തിരഞ്ഞെടുക്കുന്നു അതായത് ഒന്നുകിൽ നിങ്ങൾ സങ്കീർണ്ണ സംഖ്യയുടെ റക്റ്റാങ്കുലർ ഫോം അല്ലെങ്കിൽ സങ്കീർണ്ണ സംഖ്യയുടെ പോളാർ ഫോം അതായത് എക്സ്പോണൻഷ്യൽ ഉപയോഗിക്കും ഇപ്പോൾ രണ്ട് സങ്കീർണ്ണ സംഖ്യകൾ കുറയ്ക്കാനോ അവയുടെ തുക ലഭിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ റക്റ്റാങ്കുലർ ഫോം ഉപയോഗിക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ ഗുണനവും വിഭജനവും ചെയ്യണമെങ്കിൽ പോളാർ ഫോം ഉപയോഗിക്കുകയാണ് നല്ലത് അതിനാൽ ഫേസറിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് റക്റ്റാങ്കുലർ ഫോമിലുള്ള അതായത് രൂപത്തിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ തുടർന്ന് കൂടാതെ സങ്കീർണ്ണ സംഖ്യയുടെ ഫേസ് ആംഗിൾ ∅ tan−1 ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പോളാർ രൂപത്തിൽ നിന്ന് റക്റ്റാങ്കുലർ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യണമെങ്കിൽ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ഫേസർ രൂപത്തിൽ സിനുസോയിഡിനെ എങ്ങനെ പ്രതിനിധീകരിക്കും കാരണം സർക്യൂട്ട് വിശകലനത്തിൽ ഇത് വളരെ പ്രധാനമാണ് എന്നാൽ എന്നതിൻറെ യഥാർത്ഥ മൂല്യം അല്ലാതെ മറ്റൊന്നുമല്ല എന്നാൽ എന്നതിൻറെ സാങ്കൽപ്പിക മൂല്യത്തിന് തുല്യമാണ് അതിനാൽ തന്നിരിക്കുന്ന എന്ന സിനുസോയിഡിനായി നമ്മൾ അവ ഉപയോഗിക്കും ശേഷം അവയെ ഫേസർ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുo അതിനാൽ നിങ്ങൾ എന്നെഴുതിയാൽ എന്ത് സംഭവിക്കും എന്നാൽ എന്നതിൻറെ യഥാർത്ഥ മൂല്യത്തിന് തുല്യമാണെന്ന് നിങ്ങൾക്കറിയാം എന്നതിന് സമാനമായ പദപ്രയോഗമായി എന്ന് നമുക്ക് എഴുതാം അതിനാൽ ഇത് ആയി മാറും അതിനാൽ നമ്മൾ ഈ പദപ്രയോഗത്തെ എന്ന് എഴുതുന്നു ക്യാപിറ്റൽ V എന്താണ് എന്നാൽ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ അത് സിനുസോയിഡിന്റെ ഫേസർ പ്രാതിനിധ്യം മാത്രമാണ് അതിനാൽ ഹ്രസ്വ രൂപത്തിൽ നമ്മൾ അതിനെ എന്ന് എഴുതുന്നു അതിനാൽ ഈ രീതിയിൽ നിങ്ങൾ സ്ലൈഡിൽ കാണുന്നതാണ് യുടെ സിനുസോയിഡിന്റെ പ്രാതിനിധ്യം നിങ്ങളുടെ ഒരു സിനുസോയ്ഡിന്റെ മാഗ്നിട്യൂഡിന്റെയും ഘട്ടത്തിന്റെയും magnitude phase സങ്കീർണ്ണമായ പ്രാതിനിധ്യമാണ് ഫേസർ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇവിടെ കാണേണ്ട എന്നത് ഒരു പ്രധാന പദമാണ് എങ്കിലും നമ്മൾ ഇത് വ്യക്തമായി പരാമർശിക്കുന്നില്ല കാരണം ഫേസർ നൊട്ടേഷനിൽ നമ്മൾ എല്ലായ്പ്പോഴും ഈ പദം സമയ വ്യത്യാസമുള്ള ഒരു പ്രത്യേക ഘടകമായി കാണുന്നു അതിനാൽ എളുപ്പത്തിനായി നമ്മൾ ഈ പ്രത്യേക ഘടകം ഉപേക്ഷിക്കുന്നു എന്നാൽ നിങ്ങൾ ഫേസർ നൊട്ടേഷൻ ചെയ്യുമ്പോൾ ഈ പദം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുകയും ഫേസറിന്റെ ആവൃത്തി ആയിരിക്കുമെന്നും നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് ഇപ്പോൾ സിനുസോയിഡിന് സമാനമായ ഫേസർ ലഭിക്കാൻ നമ്മൾ ആദ്യം സിനുസോയിഡിനെ കോസൈൻ രൂപത്തിൽ പ്രകടിപ്പിക്കുന്നു അതിനാൽ ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിങ്ങൾക്ക് താൽപ്പര്യമുള്ളപ്പോഴെല്ലാം സിനുസോയിഡിനെ ഫേസർ പദങ്ങളിലേക്ക് പ്രതിനിധീകരിക്കാൻ നിലവിലുള്ള സിനുസോയിഡ് ആദ്യം കോസൈൻ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യണം എന്തുകൊണ്ടാണ് കോസൈൻ ഫോം കാരണം ഇത് ഓയിലർ എക്സ്പ്രഷന്റെ യഥാർത്ഥ ഭാഗമാണ് സമയ ഘടകം നീക്കം ചെയ്യുമ്പോൾ സിനുസോയിഡിനെ സങ്കീർണ്ണ സംഖ്യയുടെ യഥാർത്ഥ ഭാഗമായി എഴുതാമെന്നും അപ്പോൾ ആ സിനുസോയിഡിന് സമാനമായ ഫേസറാണ് ബാക്കിയായി നിലനിൽക്കുന്നതെന്നും ഇത് ഉറപ്പാക്കും ചുരുക്കത്തിൽ സമയബന്ധിതമായി എഴുതിയ എന്ന സിഗ്നൽ കോൺ എന്നിവ ഉപയോഗിച്ച് സമയ ഡൊമെയ്നിൽ നിന്ന് നമുക്ക് ഫേസർ ഡൊമെയ്നായി പരിവർത്തനം ചെയ്യാനാകും അതിനാൽ ഉപയോഗിച്ച് സിനുസോയിഡിനെ ഫേസർ ഡൊമെയ്നായി പരിവർത്തനം ചെയ്യാനാകുമെന്ന് ലളിതമായി നമുക്ക് കാണാൻ കഴിയും 𝑽 𝑉𝑚∠∅ എന്നതും 𝑰 𝐼𝑚∠ − 𝜃 എന്നതുമായ രണ്ട് ഫേസറുകൾ ഇപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഗ്രാഫിക്കലായി അവയെ നിങ്ങൾ എങ്ങനെ പ്രതിനിധീകരിക്കും നിങ്ങൾ യഥാർത്ഥ അക്ഷം എടുക്കും സാങ്കൽപ്പിക അക്ഷം എടുക്കും നിങ്ങൾ 𝑽 പ്ലോട്ട് ചെയ്യുo V ക്ക് യഥാർത്ഥ അക്ഷവുമായി ബന്ധപ്പെട്ട് കോൺ ∅ യും കറൻറ് 𝑰 ക്ക് യഥാർത്ഥ അക്ഷവുമായി ബന്ധപ്പെട്ട് −𝜃 യും ആണ് അതിനാൽ കറൻറ് 𝑰 ഇവിടെ ലാഗുചെയ്യുമ്പോൾ വോൾട്ടേജ് 𝑽 ഫേസർ നയിക്കുന്നു ഇപ്പോൾ നിങ്ങൾ സമയവുമായി ബന്ധപ്പെട്ട് കാണുകയാണെങ്കിൽ രണ്ടും നിശ്ചല തലവുമായി ബന്ധപ്പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കും അതായത് യഥാർത്ഥവും സാങ്കൽപ്പികവുമായ അക്ഷതലം കാരണം നമ്മൾ എന്ന പദം ഉപേക്ഷിച്ചു എന്നാൽ ക്രമേണ രണ്ട് ഫേസറുകളും ഫ്രെയിമിൽ കറങ്ങുകയും അവയ്ക്ക് കോണീയ ആവൃത്തി സ്ഥിരമായിരിക്കുകയും ചെയ്യും അവ എല്ലായ്പ്പോഴും പരസ്പരം ബന്ധപ്പെട്ട് സ്ഥിരമായിരിക്കും എന്നാൽ ഒരു കേവല പദത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിനാൽ എളുപ്പത്തിനായി നമ്മൾ ഫേസറിനായി ഒമേഗയെ പ്രതിനിധീകരിക്കുന്നില്ല കാരണം അത് അങ്ങനെ മനസിലാക്കി നമ്മൾ ഒരു ഫേസറായി വോൾട്ടേജിനെയും വൈദ്യുതധാരയെയും പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ടൈം ഡൊമെയ്ൻ ഫേസർ ഡൊമെയ്ൻ പോലുള്ള രണ്ട് ഡൊമെയ്നുകളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ നെ എന്ന് എഴുതാം 𝑉𝑚∠ 90 ° എന്നും എഴുതാം എന്തുകൊണ്ട് 90 ഡിഗ്രി വരുന്നു കാരണം ഇത് സൈൻ പദങ്ങളിലായതിനാൽ നിങ്ങൾ അവയെ കോസൈനായി പരിവർത്തനം ചെയ്യണം തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ എന്നത് ആണെങ്കിൽ എന്നത് ആയിരിക്കും കാരണം ഫേസർ ഡൊമെയ്നിൽ പരിവർത്തനം ചെയ്യുന്നതിനുമുമ്പ് സൈൻ നിങ്ങൾ കോസൈനായി പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്

അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് ഉദാഹരണങ്ങൾ എടുക്കാം എന്ന സിനുസോയിഡിനെ ഒരു ഫേസറിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ഇത് സ്റ്റാൻഡേർഡ് സിനുസോയിഡ് ഉപയോഗിച്ച് താരതമ്യം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഫേസർ പദത്തിനെ ഉന്നതി ഫേസ് ആംഗിൾ എന്നിവയായി പ്രതിനിധീകരിക്കാo എന്ന് മനസ്സിലാകും ആംപ്ലിറ്റ്യൂഡ് അതിനാൽ ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും ഉന്നതി 6 ആണ് ഫേസ് ആംഗിൾ മൈനസ് 10 ഡിഗ്രിയാണ് അതിനാൽ നമുക്ക് തന്നിരിക്കുന്ന സിനുസോയിഡിൻറെ ഫേസർ പ്രാതിനിധ്യം 6∠ 10 ആമ്പിയർ ആയി കണക്കാക്കാം ഇപ്പോൾ യുടെ ഫേസർ മൂല്യം കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് കൊസൈനായി പരിവർത്തനം ചെയ്യണം ഇപ്പോൾ ത്രികോണമിതി ഐഡന്റിറ്റി ഉപയോഗിച്ച് ആണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ സൂത്രവാക്യം ഇവിടെ ഉപയോഗിച്ച് നിങ്ങൾ ഇത് കോസൈൻ പദങ്ങളായി പരിവർത്തനം ചെയ്യും അപ്പോൾ അത് ആയി മാറും ഇപ്പോൾ നിങ്ങൾ ഈ സൈനസോയിഡിന്റെ മൂല്യം ഫേസറിൽ എഴുതുമ്പോൾ അത് 4∠130 ഡിഗ്രി വോൾട്ട് ആയി മാറും ഇപ്പോൾ ഒരു ഫേസറിനെ സിനുസോയിഡാക്കി മാറ്റാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തുചെയ്യും ആദ്യം കാണൂ ചതുരാകൃതിയിലുള്ളത് ഇത് നിങ്ങൾക്ക് റക്റ്റാങ്കുലർ രൂപത്തിൽ നൽകിയിരിക്കുന്നതിനാൽ ഇത് യൂളർ രൂപത്തിലോ പോളാർ രൂപത്തിലോ പരിവർത്തനം ചെയ്യുക അതിനാൽ എന്താണ് എന്ന മാഗ്നിറ്റ്യൂഡിന് സംഭവിക്കുക അത് ആകും അതിനാൽ x y ഈ രണ്ട് പദങ്ങളും നൽകിയിരിക്കുന്നു അതിനാൽ 5 ആകും കോൺ തീറ്റ എന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇത് ആകും അതായത് 126 87 ° ആയി മാറും അതിനാൽ നിങ്ങൾക്ക് കറൻറ് എന്ന് ഫേസർ രൂപത്തിൽ എഴുതാം ഇപ്പോൾ ഫേസറിനെ ഒരു സിനുസോയിഡിലേക്ക് മാറ്റുന്നത് വളരെ എളുപ്പമാണ് നിങ്ങൾ ഈ മൂല്യം ലളിതമായി ഉന്നതിയുടെ സ്ഥലത്തും ഫേസ് ആംഗിൾ ആയും നൽകണം ഒടുവിൽ അത് A ആയി മാറും ഇതിനാൽ നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം വളരെയധികം നന്ദി